മുമ്പത്തെ പ്രഭാഷണത്തിൽ ഇനിപ്പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ക്വിക്സോർട്ട് നമ്മൾ കണ്ടു ഒരു പിവറ്റ് ഘടകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം ഘടകങ്ങൾ പുനക്രമീകരിക്കുക അത് അറേയിലെ ആദ്യ മൂല്യം ആകാം നിങ്ങൾ A താഴെയും മുകളിലെയും ഭാഗങ്ങളായി വിഭജിക്കുക പിവറ്റിനേക്കാൾ ചെറുതും പിവറ്റിനേക്കാൾ വലുതും നിങ്ങൾ അറേ പുനക്രമീകരിക്കുക അങ്ങനെ ചെറുതും വലുതുമായ ഭാഗങ്ങൾക്കിടയിൽ പിവറ്റ് കിടക്കുന്നു തുടർന്ന് നിങ്ങൾ രണ്ട് പാർട്ടീഷനുകളും ആവർത്തിക്കുന്നു നമ്മൾ ഓടിച്ച യഥാർത്ഥ പൈത്തൺ കോഡ് ഇതാണ് 7500 സൈസ് ലിസ്റ്റിന് പോലും ഇത് മെർജ് സോർട്ട് പോലെ പെരുമാറുന്നില്ലെന്ന് നമ്മൾ കണ്ടു ക്വിക്സോർട്ടിന്റെ ഏറ്റവും മോശം പെരുമാറ്റം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന അനുയോജ്യമായ മൂല്യത്തിൽ നിന്ന് പിവറ്റ് വളരെ അകലെയായിരിക്കുമ്പോൾ ക്വിക്സോർട്ടിന്റെ ഏറ്റവും മോശം പെരുമാറ്റം വരുന്നു നമുക്ക് ആവശ്യമുള്ള അനുയോജ്യമായ മൂല്യം മീഡിയൻ ആണ് മീഡിയൻ ലിസ്റ്റ് രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുകയും അവിടെ ജോലി രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്യും എന്നാൽ പിവറ്റ് മൊത്തം അറേയിലെ ഏറ്റവും കുറഞ്ഞതോ പരമാവധി മൂല്യമോ ആണെങ്കിൽ ഇത് പരമാവധി ആണെന്ന് അനുമാനിച്ചു കൊണ്ട് മറ്റെല്ലാ മൂല്യങ്ങളും താഴത്തെ ഭാഗത്തേക്ക് പോകും ഒന്നും ഉയർന്ന ഭാഗത്തേക്ക് പോകില്ല അതിനാൽ റിക്കർസീവ് കോളിൽ n മൈനസ് 1 ഘടകങ്ങളുടെ സോർട്ടിംഗ് അടങ്ങിയിരിക്കുന്നു ഒരു പാർട്ടീഷൻ ശൂന്യമാണെങ്കിൽ മറ്റൊന്ന് വലുപ്പം n 1 ആണ് പിവറ്റ് അങ്ങേയറ്റത്തെ ഘടകങ്ങളിലൊന്നാണെങ്കിൽ ഇത് സംഭവിക്കും ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും മോശം അവസ്ഥയാണെങ്കിൽ n ഘടകങ്ങൾ ക്രമീകരിക്കാൻ നമ്മൾ n 1 ഘടകങ്ങൾ അടുക്കുക എന്നത് ആവർത്തിക്കേണ്ടതുണ്ട് അറേ പുനക്രമീകരിക്കുന്നതിന് നമ്മൾ ഇപ്പോഴും ഈ ഓർഡർ n ചെയ്യുന്നു കാരണം ഇത് ക്രമീകരിക്കുകയും മുഴുവൻ അറേയിലൂടെയും വിഭജനം പൂർത്തിയാക്കുകയും ചെയ്യുന്നതുവരെ നമ്മൾ ഇത് കണ്ടെത്തുന്നില്ല ഇത് പറയുന്നത് T എന്നത് T n ആണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ് എങ്കിൽ ഇൻസെർഷൻ സോർട്ടിനും സെലക്ഷൻ സോർട്ടിനും നമ്മൾ കണ്ട അതേ ആവർത്തനമാണ് ഇത് പുറത്തുവരുന്നത് അതിനാൽ T എന്നത് 1 2 n വരെയാകും ഈ സമേശൻ nn12 ആകുന്നു ക്വിക്സോർട്ടിനെക്കുറിച്ചുള്ള കൂടുതൽ വിരോധാഭാസകരമായ കാര്യം അറേയെ ശരിയായ ക്രമത്തിലോ തെറ്റായ ക്രമത്തിലോ അടുക്കുകയാണെങ്കിൽ പോലും ഇത് സംഭവിക്കും എന്നതാണ് നിങ്ങൾ ആരോഹണ ക്രമത്തിൽ അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും നമുക്ക് ഇതിനകം ആരോഹണ ക്രമത്തിൽ ഒരു അറേ ഉണ്ടെന്നും കരുതുക അപ്പോൾ ആദ്യത്തെ ഘടകം ഏറ്റവും ചെറിയ ഘടകമായിരിക്കും വിഭജനം നമുക്ക് ഒരു വശത്ത് n മൈനസ് 1 ന്റെ ഒരു അറേ നൽകുകയും മറുവശത്ത് 0 ഇടുകയും ചെയ്യും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും ക്വിക്സോർട്ടിന്റെ ഏറ്റവും മോശം അവസ്ഥ യഥാർത്ഥത്തിൽ ഇതിനകം അടുക്കിയിട്ടുള്ള ഒരു അറേയാണ് ഓർക്കുക ഇൻസെർഷൻ സോർട്ടിനും ഇതിനകം അടുക്കിയിരിക്കുന്നതുമായ അറേ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു കാരണം ഇൻസെർഷൻ സോർട്ട് വളരെ വേഗത്തിൽ നിർത്തുന്നു അതിനാൽ ക്വിക്സോർട്ട് യഥാർത്ഥത്തിൽ ഏറ്റവും മോശം അവസ്ഥയിൽ ഇൻസെർഷൻ സോർട്ട്നെക്കാളും പ്രത്യേകിച്ച് ഇതിനകം അടുക്കിയിരിക്കുന്ന അറേകളേക്കാളും മോശമാണ് എന്നിരുന്നാലും ഇത് വളരെ പരിമിതമായ ഒരു മോശം അവസ്ഥയാണെന്നും സാധ്യമായ എല്ലാ ക്രമമാറ്റങ്ങളിലൂടെയും ക്വിക്സോർട്ടിന്റെ പെരുമാറ്റം ഒരാൾക്ക് പരീക്ഷിക്കാനും കണക്കാക്കാനും കഴിയും അതിനാൽ അറ്റം വ്യത്യസ്ഥ മൂല്യങ്ങളുള്ള ഒരു ഇൻപുട്ട് അറേ എടുക്കുകയാണെങ്കിൽ ഈ n മൂല്യങ്ങളുടെ ഏതൊരു പെർമ്യൂട്ടേഷനും തുല്യ സാധ്യതയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം കൂടാതെ ഈ വ്യത്യസ്ത n പെർമുട്ടേഷനുകളിൽ ഓരോന്നിനും എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് കണക്കാക്കാം ഒരു ശരാശരി മൂല്യം കണക്കാക്കാൻ നമുക്ക് n ക്രമമാറ്റങ്ങളിലൂടെ ശരാശരിയെടുക്കുന്നു ഇപ്പോൾ ഈ ശബ്ദം ലളിതമാണ് പക്ഷേ ഗണിതപരമായി ഇത് സങ്കീർണ്ണവും സോർട്ടിംഗും ആ ഇൻപുട്ടുകളുടെ സാധ്യമായ എല്ലാ ഇൻപുട്ടുകളും സാധ്യതകളും അർത്ഥപൂർണ്ണമായി കണക്കാക്കാൻ കഴിയുന്ന അപൂർവ ഉദാഹരണങ്ങളിൽ ഒന്നാണ് എന്നാൽ നിങ്ങൾ ഈ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ കൃത്യമായ ഗണിതശാസ്ത്ര അർത്ഥത്തിൽ ക്വിക്ക്സോർട്ട് ശരാശരി n log n ക്രമത്തിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഏറ്റവും മോശം അവസ്ഥയാണെങ്കിലും ഓർഡർ n സ്ക്വയർ യഥാർത്ഥത്തിൽ വളരെ അപൂർവ്വമായി സംഭവിക്കുന്നു പിവറ്റ് ഘടകത്തിന്റെ ഒരു നിശ്ചിത തിരഞ്ഞെടുപ്പ് മൂലമാണ് ഏറ്റവും മോശം അവസ്ഥ ഉണ്ടാകുന്നത് അതിനാൽ നമ്മുടെ അൽഗോരിതത്തിലെ പിവറ്റ് ഘടകമായി നമ്മൾ ആദ്യത്തെ ഘടകം തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഏറ്റവും മോശം അവസ്ഥ ഇൻപുട്ട് നിർമ്മിക്കുന്നതിന് എല്ലായ്പ്പോഴും ഏറ്റവും ചെറിയ അല്ലെങ്കിൽ വലിയ ഘടകം ആദ്യ സ്ഥാനത്ത് വച്ചാൽ നമുക്ക് ഏറ്റവും മോശം കേസ് ഇൻപുട്ട് ലഭിക്കും ഇത് സോർട്ടഡ് ഇൻപുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ആരോഹണമോ അവരോഹമോ ആയിട്ടുള്ള ഏറ്റവും മോശം അവസ്ഥയാണെന്ന് നമ്മോട് പറയുന്നു അതിനുപകരം മധ്യ ഘടകത്തെ ക്രമരഹിതമായി എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന അനുമാനിക്കുക തുടർന്ന് എല്ലായ്പ്പോഴും ഏറ്റവും ചെറിയ മൂല്യം നൽകിക്കൊണ്ടും പിന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടും നമുക്ക് ഏറ്റവും മോശം കേസ് ഇൻപുട്ട് നിർമ്മിക്കാൻ കഴിയും അങ്ങനെ എല്ലാ ഘട്ടത്തിലും മധ്യ ഘടകം ഏറ്റവും ചെറുതാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഘടകമാണ് അതിനാൽ പിവറ്റിന്റെ ഏതെങ്കിലും നിശ്ചിത തിരഞ്ഞെടുപ്പിനായി ഓരോ ആവർത്തനത്തിലും ഒരു നിശ്ചിത രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു പിവറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ഏറ്റവും മോശം അവസ്ഥ പുനർനിർമ്മിക്കാൻ കഴിയും എന്നിരുന്നാലും നമ്മൾ നമ്മളുടെ തന്ത്രം മാറ്റുകയും ഓരോ തവണയും നമ്മൾ ക്വിക്സോർട്ട് കോൾ ചെയ്യുമ്പോൾ ഘടകങ്ങളുടെ പരിധിക്കുള്ളിൽ ക്രമരഹിതമായി ഒരു മൂല്യം തിരഞ്ഞെടുക്കുകയും പിവറ്റ് ആയി തിരഞ്ഞെടുക്കുകയും ചെയ്താൽ നമുക്ക് ഈ ഓർഡറിനെ മറികടന്ന് ഏറ്റവും മോശം അവസ്ഥയിൽ പ്രവർത്തന സമയം പ്രതീക്ഷിക്കാം വീണ്ടും ഒരു ശരാശരി പ്രവർത്തന സമയം ക്രമം n log n ഇതിന്റെ ഫലമായി ഏറ്റവും മോശമായ ക്രമം n സ്ക്വയറാണെങ്കിലും ശരാശരി ഓർഡർ n log n ആണെങ്കിലും ക്വിക്സോർട്ട് യഥാർത്ഥത്തിൽ വളരെ വേഗതയുള്ളതാണ് നമ്മൾ കണ്ടത് മെർജ് സോർട്ടിന്റെ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നതാണ് കാരണം പുനക്രമീകരണം ക്രമീകരിക്കുന്നതിലൂടെ നമ്മൾ അധിക ഇടം സൃഷ്ടിക്കുന്നില്ല നിങ്ങൾ എവിടെയെങ്കിലും മറ്റൊരു പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കാണാനാകാത്തത് നമ്മൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഇടവേളകളിൽ ക്വിക്സോർട്ട് ആവർത്തിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആവർത്തന ഭാഗം പോലും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്നതാണ് അതിനാൽ ഇതിന്റെ ഫലമായി ക്വിക്സോർട്ട് പ്രായോഗികമായി ഏറ്റവും ഫലപ്രദമായ സോർട്ടിംഗ് അൽഗോരിതങ്ങളിൽ ഒന്നായി മാറി നമുക്ക് ഒരു ബട്ടൺ ഉള്ള ഒരു സ്പ്രെഡ് ഷീറ്റ് പോലുള്ള ഒരു യൂട്ടിലിറ്റി ഉള്ളപ്പോൾ ഈ കോളം ക്രമീകരിക്കുക എന്ന് പറയുന്നത് മിക്കപ്പോഴും അവ ആന്തരിക അൽഗോരിതം അല്ല അത് നടപ്പിലാക്കിയത് യഥാർത്ഥത്തിൽ ക്വിക്ക്സോർട്ട് ആണ് പൈത്തണിന് l dot sort എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു ഇത് ബ്യുൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രമീകരിക്കാൻ അനുവദിക്കുന്നു ഉദാഹരണത്തിന് ഏത് തരം സോർട്ടിങ് അൽഗോരിതം ആണ് പൈത്തൺ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം മിക്കപ്പോഴും അത് ക്വിക്ക്സോർട്ട് ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ ചില അൽഗോരിതം ലിസ്റ്റിലെ മൂല്യങ്ങൾ തീരുമാനിക്കുകയും മൂല്യങ്ങളുടെ തരം അനുസരിച്ച് വ്യത്യസ്ത സോർട്ടിങ് അൽഗോരിതം പ്രയോഗിക്കുകയും ചെയ്യും എന്നാൽ സ്ഥിരസ്ഥിതി സാധാരണയായി ക്വിക്സോർട്ട് ആണ് അതിനാൽ നമ്മൾ മുന്നേറുന്നതിനുമുമ്പ് ക്വിക്സോർട്ടിന്റെ ഏറ്റവും മോശം പെരുമാറ്റം യഥാർത്ഥത്തിൽ ഇതിനകം അടുക്കിയിരിക്കുന്ന പട്ടികയിലെ ഏറ്റവും മോശം കേസ് ഇൻപുട്ടിന്റെ വിവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന നമ്മളുടെ അവകാശവാദം സാധൂകരിക്കാൻ ശ്രമിക്കാം ഇവിടെ നമ്മളുടെ പൈത്തൺ ഇമ്പ്ലിമെൻറ്റേഷന്റെ മുമ്പ് നമ്മൾ മുമ്പ് എഴുതിയ കോഡ് ആവർത്തിച്ചു ഇപ്പോൾ നമ്മൾ ഇനിപ്പറയുന്ന മറ്റൊരു പ്രവർത്തനം എഴുതാൻ പോകുന്നു രണ്ട് സൂചികകൾ ആവർത്തിച്ച് തിരഞ്ഞെടുത്ത് അവ മാറ്റിക്കൊണ്ട് ഇത് ഒരു ലിസ്റ്റിലെ ഘടകങ്ങളെ മാറ്റും അറേയിലുള്ള ഔട്ട്പുട്ടിന്റെ ക്രമം ക്രമീകരിക്കാനും അതിന് അനുയോജ്യമായ ക്രമരഹിതമായ ഷഫിൾ സൃഷ്ടിക്കാനും ഇത് നമ്മളെ അനുവദിക്കും അതിനുള്ള കോഡ് ഇതാ ഇത് വളരെ ലളിതമാണ് നിങ്ങൾ ക്രമരഹിതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പൈത്തൺ ലൈബ്രറി ഉപയോഗിക്കുന്നു ഇത് ക്രമരഹിതമായ സംഖ്യകൾ സൃഷ്ടിക്കാൻ ചില ഫങ്ഷനുകളെ അനുവദിക്കുന്നു ഈ ലൈബ്രറിയിൽ ഉള്ള ഒരു കാര്യം ഈ ഫംഗ്ഷൻ റാൻഡറേഞ്ച് എന്നാണ് അത് ഒരു അറേ 0 മുതൽ l 1 എന്ന അറേയിൽ ഒരു പൂർണ്ണസംഖ്യ സൃഷ്ടിക്കുന്നു അതിനാൽ നമ്മൾ ഒരു ലിസ്റ്റ് കൈമാറുന്നു 0 മുതൽ l 1 വരെയുള്ള റേഞ്ചിലെ j k എന്നീ രണ്ട് സൂചികകൾ നമ്മൾ ആവർത്തിച്ച് തിരഞ്ഞെടുക്കുന്നു കൂടാതെ lj lk എന്നിവ കൈമാറുകയും ചെയ്യും എത്ര തവണ നമ്മൾ ഇത് ചെയ്യും ശരി നമ്മൾ ഈ കേസിൽ ഒരു വലിയ എണ്ണം തവണ ചെയ്യുന്നു ഒരു ലിസ്റ്റിൽ 10000 ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു നമ്മൾ ഇത് 5000 തവണ ചെയ്യും l2 മടങ്ങ് ചെയ്യും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം നമ്മൾ പതിവുപോലെ പൈത്തൺ ഇന്റർപ്രെറ്റർ ലോഡുചെയ്യുന്നു തുടർന്ന് നമ്മൾ ക്വിക്സോർട്ട് ഇമ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ക്രമരഹിതമായി ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒന്നിലധികം ഫയലുകളിൽ പൈത്തൺ ഫംഗ്ഷനുകൾ എഴുതാനും ഒന്നിനുപുറകെ ഒന്നായി ഇറക്കുമതി ചെയ്യാനും കഴിയും അവയെല്ലാം ലോഡ് ചെയ്യപ്പെടും ഇപ്പോൾ മുമ്പത്തെപ്പോലെ നമ്മൾ പറയും l ഉദാഹരണത്തിന് ലിസ്റ്റ് ആകാം അതിനാൽ നമുക്ക് sys ഉൾപ്പെടുത്തുകയും ആ ആവർത്തന പരിധി പ്രക്രിയ അവസാനിപ്പിക്കുകയും ചെയ്യാം കാരണം ഇത് നമ്മളെ അവസാനിപ്പിക്കുമെന്ന് നമ്മൾക്കറിയാം അതിനാൽ ഒരു വലിയ ആവർത്തന പരിധി സജ്ജമാക്കുക ഇപ്പോൾ നമ്മൾ അവസാനമായി ചെയ്ത ഒരു വലിയ ലിസ്റ്റ് 7500 മുതൽ താഴോട്ട് 0 വരെ സജ്ജമാക്കി നമ്മൾ കണ്ടത് ഈ ലിസ്റ്റ് വേഗത്തിൽ ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ അത് വളരെക്കാലം എടുക്കും കാരണം ഇത് 7500 ആണ് ഇത് ഏറ്റവും മോശം അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ശ്രമിക്കാൻ പോകുന്നത് അതാണ് അതിനു ശേഷവും അത് സംഭവിക്കും ഇത് അടുക്കിയിരിക്കുന്നു കാരണം അത് അടുക്കിയിട്ടും ഇപ്പോഴും ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇൻപുട്ട് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അത് ആരോഹണ ക്രമമാണ് അതിനാൽ അവരോഹണ ക്രമവും ആരോഹണക്രമവും വളരെ സമയമെടുക്കും ഇപ്പോൾ നമ്മൾ l ക്രമരഹിതമാക്കുന്നുവെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ഇപ്പോൾ l നോക്കിയാൽ അക്കങ്ങൾ ക്രമത്തിലല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ 7500 നും 2000 നും ഇടയിൽ ഏകദേശം 6000 നിങ്ങൾ കാണുന്നു നമ്മളുടെ ക്ലെയിം ഇത് വേഗത്തിൽ പോകും വാസ്തവത്തിൽ നിങ്ങൾ ക്വിക്ക്സോർട്ട് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ക്വിക്ക്സോർട്ട് കൂടുതൽ വേഗത്തിലായതിനാലല്ല ഇൻപുട്ടിന്റെ ക്രമം കൊണ്ടാണ് കാരണം നമുക്ക് വീണ്ടും ക്രമീകരിച്ച ലിസ്റ്റിൻമേൽ ക്വിക്സോർട്ട് ഉണ്ടെങ്കിൽ ക്രമീകരിച്ച ലിസ്റ്റ് വീണ്ടും മന്ദഗതിയിലാകും ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ പ്രകടമാക്കുന്നു നമ്മൾ ലിസ്റ്റ് ക്രമരഹിതമാക്കുകയും നമ്മൾ ക്വിക്ക്സോർട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ അത് ഉടനടി പുറത്തുവരും പക്ഷേ നമ്മൾ അത് ക്രമരഹിതമാക്കിയില്ലെങ്കിൽ അടുക്കിയിരിക്കുന്ന ലിസ്റ്റ് അടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് വളരെ സമയമെടുക്കും അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിക്കാം ഉദാഹരണത്തിന് നമ്മൾ ഈ ലിസ്റ്റിലേക്ക് മടങ്ങുകയും 10000 അല്ലെങ്കിൽ 15000 പോലെയുള്ള വലിയ എന്തെങ്കിലും പറയുകയും ചെയ്താൽ നമ്മൾ അത് ക്രമരഹിതമാക്കുകയും പിന്നീട് അത് ശരിയാക്കുകയും ചെയ്യും അതിനാൽ ശരാശരി ക്വിക്ക്സോർട്ട് വേഗമേറിയതാണെന്ന നമ്മളുടെ അവകാശവാദത്തെ ഇത് സാധൂകരിക്കുന്നു ഒരിക്കൽ ക്രമീകരിച്ച വളരെ മോശമായ ഈ ഇൻപുട്ടുകൾ നിങ്ങൾ നൽകുമ്പോൾ മാത്രമാണ് അത് മോശമായി പെരുമാറുന്നത് ഇപ്പോൾ ഒരാൾ ഡാറ്റ അടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മാനദണ്ഡം കൂടി ഉണ്ട് അതിനാൽ മിക്കപ്പോഴും ഈ സോർട്ടിംഗ് ഒന്നിലധികം ആട്രിബ്യൂട്ടുകളിൽ ഘട്ടങ്ങളായി സംഭവിക്കുന്നു ഉദാഹരണത്തിന് ഒരു ക്വിസ് അല്ലെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് റോൾ ലിസ്റ്റിൽ അക്ഷരമാലാക്രമത്തിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അവർക്കെല്ലാം മാർക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ അവയെ മാർക്കിന്റെ ക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ രണ്ടോ അതിലധികമോ വിദ്യാർത്ഥികൾക്ക് ഒരേ മാർക്ക് ഉള്ള ബന്ധങ്ങളുള്ളിടത്ത് നിങ്ങൾ അവരെ അക്ഷരമാലാക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുന്നത് തുടരാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷരമാലാക്രമത്തിൽ ഒരു യഥാർത്ഥ ക്രമം ഉണ്ട് തുടർന്ന് നിങ്ങൾ മറ്റൊരു ആട്രിബ്യൂട്ട് എടുക്കുന്നു അതായത് മാർക്കുകൾ അവ ഉപയോഗിച്ച് ഉള്ള തരംതിരിക്കൽ ഇതിനകം അക്ഷരമാലാക്രമത്തിൽ നിലവിലുള്ള സോർട്ടിംഗിനെ തടസ്സപ്പെടുത്തരുത് യഥാർത്ഥ ലിസ്റ്റിൽ രണ്ട് ഇനങ്ങൾ തുല്യമായ രണ്ട് ലിസ്റ്റുകൾ നമ്മളുടെ പക്കലുണ്ടെങ്കിൽ സോർട്ടിംഗിന് ശേഷമുള്ള അതേ ഓർഡർ അവ നിലനിർത്തണം എന്നതാണ് അതിനാൽ തുല്യമായ രണ്ട് ഘടകങ്ങൾ ഞാൻ എടുക്കരുത് സോർട്ട് അടുക്കുമ്പോൾ അവയെ സ്വാപ്പ് ചെയ്യുന്നു നിങ്ങൾ ഒരു സ്പ്രെഡ്ഷീറ്റ് പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ ഇത് നിർണായകമാകും കാരണം നിങ്ങൾ ഒരു കോളം ഉപയോഗിച്ച് അടുക്കുകയാണെങ്കിൽ മറ്റൊരു കോളം ഉപയോഗിച്ച് നിങ്ങൾ ക്രമീകരിച്ചത് ശല്യപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിർഭാഗ്യവശാൽ നമ്മൾ വിവരിച്ച രീതി ക്വിക്ക്സോർട്ട് സ്ഥിരമല്ല കാരണം ഈ പാർട്ടീഷൻ ഘട്ടത്തിൽ നമ്മൾ ഒരു പാർട്ടീഷൻ വിപുലീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ നടുവിലേക്ക് പിവറ്റ് നീക്കുമ്പോഴോ നമ്മൾ ചെയ്യുന്നത് അവസാനം തരംതിരിക്കാത്ത ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഘടകങ്ങളുടെ ക്രമത്തെ തടസ്സപ്പെടുത്തുന്നു അതിനാൽ ഈ ഓർഡർ അസ്വസ്ഥമാക്കുന്നതിൽ കാര്യമില്ലെന്ന് നമ്മൾ നേരത്തെ വാദിച്ചു കാരണം നമ്മൾ അത് ക്രമീകരിക്കാൻ പോകുന്നു പക്ഷേ തരംതിരിക്കൽ സ്ഥിരതയുള്ളതാണെങ്കിൽ അത് പ്രശ്നമാണ് ഈ ഘടകങ്ങൾ പ്രത്യേക ക്രമത്തിൽ നിലവിലുള്ള ആട്രിബ്യൂട്ടിന് വേണ്ടിയല്ല മറിച്ച് വ്യത്യസ്ത ആട്രിബ്യൂട്ടിന് വേണ്ടിയുള്ള ഒരു കാരണമുണ്ടെങ്കിൽ നമ്മൾ അവയെ ചുറ്റിക്കറങ്ങുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രമപ്പെടുത്തിയ ക്രമം നശിപ്പിക്കുകയാണ് മറുവശത്ത് മൂല്യങ്ങൾ തുല്യമാണെങ്കിൽ എല്ലായ്പ്പോഴും ഒരു വശത്ത് നിന്ന് തുടർച്ചയായി തിരഞ്ഞെടുക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളാണെങ്കിൽ മെർജ് സോർട്ട് യഥാർത്ഥത്തിൽ സ്ഥിരമാണ് എന്ന് നമുക്ക് കാണാം അതിനാൽ നമ്മൾ ഇടത്തും വലത്തും വലത്തോട്ടും മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വൽ ടു കേസ് case ഉള്ളപ്പോൾ നമ്മൾ ഒന്നുകിൽ ഘടകം അന്തിമ ലിസ്റ്റ് ഇടത്തെയ്ക്കോ വലത്തേയ്ക്കോ ഇടണം നമ്മൾ തുടർച്ചയായി ഇടത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എല്ലായ്പ്പോഴും വലതുവശത്തുള്ളവയുടെ ഇടതുവശത്ത് ഘടകങ്ങൾ നിലനിർത്തും അതിനാൽ ഇത് ഒരു സ്ഥിരതയുള്ള സോർട്ട് ആയി തുടരും അതുപോലെ നമ്മൾ കാര്യങ്ങൾ പിന്നിലേക്ക് നീക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയാൽ ഇൻസെർഷൻ സോർട്ടും സ്ഥിരതയുള്ളതായിരിക്കും നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അവ കർശനമായി ചെറുതാണെങ്കിൽ നിലവിലെ മൂല്യത്തിന് തുല്യമായ എന്തെങ്കിലും നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ ഇൻസെർഷൻ നിർത്തുന്നു അതിനാൽ മെർജ് സോർട്ട് സ്റ്റേബിൾ ആണ് നമ്മൾ വിവരിച്ചത് പോലെ ക്വിക്സോർട്ട് സ്റ്റേബിൾ അല്ല എങ്കിലും കൂടുതൽ ശ്രദ്ധാപൂർവ്വം നടപ്പിലാക്കാനും സ്റ്റേബിൾ ആക്കാനും സാധിക്കും